ഇപ്പോൾ നമുക്ക് നമ്മുടെ ശേഖരിച്ച ഡേറ്റകൾ സംഭരിക്കാൻ പറ്റിയ MongoDB എന്ന മറ്റൊരു ഡേറ്റാബേസ് നോക്കാം MongoDB ഒരു ഓപ്പൺ സോഴ്സ് നോൺ റിലേഷണൽ ഡോക്യുമെന്റ് ബേസ്ഡ് ഡേറ്റബേസ് ആണ് MongoDB ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമ്മൾ ഈ ട്യൂട്ടോറിയൽ പിന്തുടരാൻ പോകുന്നു MongoDB GPG പബ്ലിക് കീ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അത് ചെയ്യുന്നതിന് നമുക്ക് താഴെ പറയുന്ന ഒരു കമാൻഡ് ടെർമിനലിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം അടുത്തതായി നമ്മൾ ഒരു ഫയൽ ലിസ്റ്റ് സൃഷ്ടിക്കാൻ പോകുന്നു അതായത് നമ്മൾ MongoDB റിപ്പോസിറ്ററി വിശദാംശങ്ങൾ apt ലേക്ക് ചേർക്കുകയും തുടർന്ന് പാക്കേജ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ പാക്കേജ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് നമുക്ക് sudo apt എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്ത് എന്റർ അമർത്തുക ഈ ഘട്ടത്തിനുശേഷം നമുക്ക് MongoDB പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം അതിനായി sudo apt get install y MongoDB org എന്ന കമാൻഡ് ഉപയോഗിക്കാം ഇത് നിങ്ങളുടെ ടെർമിനലിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക ഇപ്പോൾ MongoDB വിജയകരമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങളുടെ ടെർമിനലിൽ മോംഗോ എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക ഇത് നിങ്ങൾക്ക് MongoDB കൺസോൾ നൽകും MongoDBയിൽ show dbs കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിലവിലുള്ള ഡേറ്റബേസ് കുറയ്ക്കാം ഇപ്പോൾ use database name എന്നീ കമാൻഡുകൾ ഉപയോഗിച്ച് നമുക്കൊരു ഡേറ്റാബേസ് നിർമിക്കാം osndata എന്നത് നമ്മുടെ ഡേറ്റാബേസിന്റെ പേരായി നമുക്ക് ഉപയോഗിക്കാം എന്റർ അമർത്തുക ഇത് db osndata ലേക്ക് സ്വിച്ച് ചെയ്ത് ഒരു മെസ്സേജ് നൽകും ഇപ്പോൾ മുമ്പത്തെ കമാൻഡ് ഉപയോഗിച്ച് ഡേറ്റാബേസുകൾ വീണ്ടും പട്ടികപ്പെടുത്താൻ ശ്രമിക്കാം പുതുതായി സൃഷ്ടിച്ച ഡാറ്റാബേസ് പട്ടികയിൽ ദൃശ്യമായിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം അതിൽ ഇതുവരെ ഡാറ്റ സംഭരിച്ചിട്ടില്ല എന്നതാണ് ഒരു MongoDBയിൽ ഡേറ്റ ചേർക്കുന്നതിനുമുമ്പ് ആദ്യം നമുക്ക് MongoDB ക്കും പൈത്തണിനും ഇടയിലുള്ള കണക്റ്റർ പോലെ പ്രവർത്തിക്കുന്ന pymongo ഇൻസ്റ്റാൾ ചെയ്യാം CtrlC ഉപയോഗിച്ച് മോംഗോ ഷെല്ലിൽ നിന്ന് പുറത്തു കടക്കുക തുടർന്ന് sudo pip install pymongo എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക ഇത് pymongo ഇൻസ്റ്റാൾ ചെയ്യും ഇപ്പോൾ pymongo വിജയകരമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം അത് ചെയ്യുന്നതിന് പൈത്തൺ സ്റ്റാർട്ട് ചെയ്ത് import pymongo എന്റർ ചെയ്യുക ഇത് വിജയകരമായി ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ pymongo ഇൻസ്റ്റാൾ ചെയ്തതായി മനസിലാക്കാം ഇപ്പോൾ ട്വിറ്റർ സ്ട്രീമിംഗ് API ൽ നിന്നുള്ള ട്വീറ്റ് ശേഖരണത്തിന്റെ നമ്മുടെ മുൻ ഉദാഹരണത്തിലേക്ക് പോകാം pymongoയിൽ നിന്ന് കമാൻഡുകളായ pymongoയും MongoClient ഉം നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം ഡേറ്റാബേസിലേക്കുള്ള കണക്ഷൻ MongoClientന് തുല്യമായ കണക്ഷ നായി നിർവചിക്കപ്പെടുന്നു അടുത്ത വരിയിൽ ഞങ്ങൾ ഈ കണക്ഷനിൽ ആക്സസ് ചെയ്യുന്ന ഡാറ്റാബേസിനെ നിർവ്വചിക്കുന്നു ഈ സമയം ട്വീറ്റ് ലഭിച്ചതിനുശേഷം മുഴുവൻ ട്വീറ്റ് ഒബ്ജക്റ്റും നമ്മൾ JSON ഫോർമാറ്റിൽ MongoDBയിൽ സൂക്ഷിക്കും എന്നതൊഴിച്ചാൽ ബാക്കി പ്രോഗ്രാം ഒന്നുതന്നെയാണ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്വീറ്റ് വസ്തുവാണ് ഡാറ്റാ വേരിയബിൾ എന്നത് ശ്രദ്ധിക്കുക കൂടാതെ ട്വീറ്റ് ഐഡിയിലേക്ക് മറ്റൊരു കീ അണ്ടർസ്കോർ ഐഡി സജ്ജമാക്കുക MongoDB യിലെ ഓരോ റെക്കോർഡിനും ഒരു യൂണിക് ഐഡന്റിഫയറായി അണ്ടർസ്കോർ ഐഡി ഉപയോഗിക്കുന്നു ഇപ്പോൾ നമുക്ക് ഈ ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യാം ഇലക്ഷൻ 2016 ൽ ഡേറ്റ വരാൻ തുടങ്ങുന്നത് നിങ്ങൾ ഉടൻ കാണും ഇപ്പോൾ ഈ ഡേറ്റ ഡേറ്റാബേസിൽ സംഭരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം മോംഗോ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മോംഗോ ഷെൽ സ്റ്റാർട്ട് ചെയ്യാം show dbs എന്റർ ചെയ്ത് നിലവിലുള്ള ഡേറ്റാബേസുകൾ വീണ്ടും പട്ടികപ്പെടുത്താം ഈ സമയം നിങ്ങൾ ലിസ്റ്റുചെയ്ത osndata ശ്രദ്ധിക്കും ഡേറ്റ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് അത് കാണിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം അത് ഇപ്പോൾ കുറച്ച് ഡേറ്റ കൈവശം വച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഇത് കൂടുതൽ പരിശോധിക്കാം Osndata ഉപയോഗിച്ച് കൊണ്ട് osn ഡേറ്റാബേസിലേക്ക് മാറുക തുടർന്ന് show collections എന്റർ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് system indexes twitter എന്നീ രണ്ട് ശേഖരങ്ങൾ കാണാൻ കഴിയും indexes എന്നത് മോംഗോയുടെ ഡിഫോൾട്ട് ശേഖരമാണ് നമ്മൾ ഇപ്പോൾ സൃഷ്ടിച്ചതും ഡേറ്റ സംഭരിച്ചിരിക്കുന്നതും ട്വീറ്റ് ശേഖരണത്തിലാണ് ട്വീറ്റ് ശേഖരത്തിൽ നിന്ന് ഈ ഡേറ്റ കണ്ടെത്തുന്നതിനുള്ള ചില അടിസ്ഥാന കമാൻഡുകൾ നമുക്ക് നോക്കാം Db count എന്ന കമാൻഡ് നൽകി സംഭരിച്ച ട്വീറ്റുകളുടെ എണ്ണം നമുക്ക് കണക്കാക്കാം ഇവിടെ ട്വീറ്റ് എന്നത് ശേഖരത്തിന്റെ പേരാണ് നമ്മുടെ കാര്യത്തിൽ ഔട്ട്പുട്ട് 5 ആണ് indexes എന്ന കമാൻഡ് ഉപയോഗിച്ച് സംഭരിച്ചിരിക്കുന്ന ഡേറ്റയും നമുക്ക് നോക്കാം സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റ JSON ഫോർമാറ്റിലാണെന്ന കാര്യം ശ്രദ്ധിക്കുക എന്നിരുന്നാലും എല്ലാം കുഴഞ്ഞുമറിഞ്ഞതായി തോന്നുന്നു അതിനാൽ നന്നായി ഫോർമാറ്റ് ചെയ്ത സിംഗിൾ റെക്കോർഡ് പ്രിന്റ് ചെയ്യാൻ db findone എന്ന കമാൻഡ് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നന്നായി ഫോർമാറ്റ് ചെയ്ത ട്വീറ്റ് ഒബ്ജക്റ്റ് വ്യക്തമായി കാണാം അതിനാൽ ഫേസ്ബുക്ക് എപിഐ ട്വിറ്റർ എപിഐ എന്നിവ വഴി OSN ഡേറ്റ എങ്ങനെ ശേഖരിക്കാമെന്നും MySQL എന്ന ഒരു റിലേഷണൽ ഡാറ്റാബേസിലേക്കോ MongoDB എന്ന നോൺ റിലേഷണൽ ഡാറ്റാബേസിലേക്കോ ഡാറ്റ എങ്ങനെ സംഭരിക്കാമെന്നും ഇപ്പോൾ നമുക്കറിയാം